നമ്മൾ ഇനി ലോക്കിങ് പ്രോട്ടോകോളുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ പ്രോട്ടോകോൾ ടൂ ഫേസ് ലോക്കിങ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ 2 PL ആണ് 2PL എന്നാണ് അതിനെ കൂടുതലും പറയുന്നത് ഇത് ടൂ ഫേസ് ലോക്കിങ് പ്രോട്ടോകോൾ ആണ് അതിനെ എന്തുകൊണ്ടാണ് ടൂ ഫേസ് എന്ന് പറയുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം കാരണം ഇവിടെ 2 ഫേസ് ഉണ്ട് ആദ്യത്തെ ഫേസിൽ അതിലെ ഗ്രോയിങ് ഫേസ് എന്നാണ് പറയുന്നത് ഗ്രോയിങ് അല്ലെങ്കിൽ ലോക്കിംഗ് ഫേസ് ഗ്രോയിങ് ഫേസ് അല്ലെങ്കിൽ ഒന്നാമത്തെ ഫേസിൽ ട്രാൻസാക്ഷന് ലോക്കുകൾ മാത്രമേ കിട്ടുകയുള്ളൂ അതിന് ലോക്കുകൾ റിലീസ് ചെയ്യാൻ സാധിക്കുകയില്ല അതിന് ലോക്ക് എടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇത് ഗ്രോയിങ് ഫേസ് ആണ് അതിൻറെ കൂടെ ഇനി വരുന്നത് രണ്ടാമത്തെ ഫേസ് ആണ് അതിനെ നമ്മൾ ഷ്രിങ്കിംങ് ഫേസ് അല്ലെങ്കിൽ അൺലോക്കിംങ് ഫേസ് എന്നു പറയുന്നു നിങ്ങൾ നേരത്തെ തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടാകും അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇതിന് ലോക്കുകളെ റിലീസ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ കൈവശപ്പെടുത്താൻ സാധിക്കുകയില്ല ഇതാണ് ആ രണ്ടു ഫേസുകളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ആദ്യത്തെ ഫെയിസിൽ എല്ലാ ട്രാൻസാക്ഷനുകൾക്കും ലോക്കുകൾക്ക് അപേക്ഷ കൊടുക്കുവാനെ സാധിക്കുകയുള്ളു അവയെ റിലീസ് ചെയ്യാതെ രണ്ടാമത്തെ ഫെയിസിൽ ആണെങ്കിൽ ട്രാൻസാക്ഷന് ലോക്കുകളെ റിലീസ് ചെയ്യുവാനെ സാധികുകയുള്ളു കൈവശപ്പെടുത്തുവാൻ സാധിക്കുകയില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ ഫെയിസിൽ ഉള്ള ട്രാൻസാക്ഷനുകൾ എല്ലാം ലോക്കുകൾക്ക് അപേക്ഷ കൊടുക്കുവാൻ മാത്രം കഴിവുള്ളവയാണ് അവയെ റിലീസ് ചെയ്യുന്നില്ല രണ്ടാമത്തെ ഫെയിസ് റിലീസു ചെയ്യുന്നു പക്ഷേ അതിന് ഒന്നും കിട്ടുന്നില്ല അപ്പോൾ എല്ലാ ട്രാൻസാക്ഷനുകളും ആദ്യം അവക്ക് ആവശ്യമുള്ള ലോക്കുകൾക്ക് ഉള്ള അപേക്ഷകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ അവർക്ക് ട്രാൻസാക്ഷൻ പൂർത്തിയാക്കുവാൻ സാധിക്കും അതാണ് ഗ്രോയിങ്ങ് ഫെയിസ് അല്ലെങ്കിൽ ലോക്കിങ്ങ് ഫെയിസ് ഇനി 2 മത്തെ ഫെയിസ് ആൺലോക്കിങ്ങ് ഫെയിസ് ആണ് അത് സാധനങ്ങളെ റിലീസ് ചെയ്തു കൊണ്ടേയിരിക്കും അത് കൂടുതൽ ലോക്കുകൾ ആവശ്യപ്പെടുന്നില്ല ഇതാണ് 2 ഫെയിസ് ലോക്കിങ്ങ് പ്രോട്ടോകോൾ ഇനി ഇതിൽ രണ്ടു കാര്യങ്ങൾ കൂടി ചെയ്യാൻ സാധിക്കും ടു ഫേസ് ലോക്കിങ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ 2 PL എന്നത് കോൺഫ്ലിക്ട് സീരിയലൈസബിൾ ആണ് അത് വളരെ വളരെ ആകർഷകമാണ് അതിനുള്ള തെളിവ് ഇനി കാണിക്കാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ടു ഫേസ് പ്രോട്ടോകോളിലുള്ള ഷെഡ്യൂളുകൾ എല്ലാം സീരിയലൈസ്ഡ് ആണ് എന്ന് അത് സീരിയൽ ഷെഡ്യൂളിന് തുല്യമാണ് സീരിയലിൽ ഉള്ള ട്രാൻസാക്ഷനിന്റെ ഓർഡർ സീരിയലൈസ്ഡ് ആണ് അതിനെ നമ്മൾ ലോക്ക് പോയിൻറ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഈ ലോക്ക് പോയിന്റ് ലോക്ക് പോയിന്റിന്റെ ഓർഡർ ഈ ലോക്ക് പോയിന്റ് എന്നത് എപ്പോഴാണോ ഒരു ട്രാൻസാക്ഷന് അതിന് വേണ്ട എല്ലാ ലോക്കുകളും കിട്ടുന്നത് ആ ഒരു സമയത്തെയാണ് പറയുന്നത് ഉദാഹരണത്തിന് ട്രാൻസാക്ഷൻ ഒന്നിന് ഐറ്റം A യുടെയും B യുടെയും ലോക്ക് വേണം അതിന് ഐറ്റം A കിട്ടുമ്പോൾ അതിന് ലോക്ക് പോയിന്റ് കിട്ടുന്നില്ല B കൂടി കിട്ടുമ്പോൾ ലോക്ക് പോയിന്റ് കിട്ടുന്നു അപ്പോൾ ഈ 2 ഫെയിസ് പ്രോട്ടോകോളിൽ ട്രാൻസാക്ഷൻ ഒന്നിന് ലോക്ക് A കിട്ടിയതിനു ശേഷം അത് അതിനെ റിലീസ് ചെയ്യുന്നില്ല അത് ആദ്യം എല്ലാ ലോക്ക്കളെയും കിട്ടുവാൻ ആണ് നോക്കുക അതായത് ലോക്ക് B കിട്ടിയതിനുശേഷമായിരിക്കും എല്ലാ പോയിന്റുകളും റിലീസ് ചെയ്യുന്നത് അതിന് ആവശ്യമുള്ള എല്ലാ ഐറ്റങ്ങളുടെയും ലോക്ക് കിട്ടുമ്പോൾ ആണ് ലോക്ക് പോയിന്റ് എന്നു പറയുന്നത് അതായത് ട്രാൻസാക്ഷൻ ലോക്കുകളെ കൈവശപ്പെടുത്തുന്നു അപ്പോൾ ഇതാണ് ട്രാൻസാക്ഷനിന്റെ ലോക്ക് പോയിൻറ് അവ ഷെഡ്യൂൾ ആണെങ്കിലും ലോക്ക് പോയിൻറിന്റെ ഓർഡറിൽ അതിനെ സീരിയലൈസ് ചെയ്യാൻ സാധിക്കും ഏതു ട്രാൻസാക്ഷൻ ആണോ ആദ്യം ലോക്ക് പോയിൻറിൽ എത്തുന്നത് അതാണ് ഇക്വലന്റ് സീരിയൽ ഷെഡ്യൂളിലെ ആദ്യത്തെ ട്രാൻസാക്ഷൻ ഇവിടെ ഒരു 2 ഫേസ് ഷെഡ്യൂൾ എന്നത് കോൺഫ്ലിക്ട് സീരിയലൈസബിൾ ആണ് അതിനെ നമുക്ക് തെളിയിക്കാൻ സാധിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ പ്രോട്ടോക്കോളും ഡെഡ് ലോക്ക് എന്ന പ്രശ്നം നേരിടുന്നു കാരണം ട്രാൻസാക്ഷൻ 1 ന് ലോക്ക് വേണം അങ്ങനത്തെ ഒരു ഉദാഹരണം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അത് ഉള്ളത് ട്രാൻസാക്ഷൻ 2 ഫേസ് പ്രോട്ടോക്കോളിൽ ആണ് കാരണം ഒരു ട്രാൻസാക്ഷനും ലോക്കുകളെ റിലീസ് ചെയ്യുന്നില്ല അത് ലോക്ക് കിട്ടാൻ ശ്രമിക്കുകയാണ് അത് കാരണം നേരെ ഡെഡ് ലോക്കിലേക്ക് ചെല്ലും കാരണം ട്രാൻസാക്ഷൻ 1 ന് ലോക്ക് A കിട്ടുന്നു എന്നിട്ട് അതിന് B യും വേണം ആ സമയം ട്രാൻസാക്ഷൻ 2 ന്റെ കയ്യിലാണ് B യുടെ ലോക്ക് ഉള്ളത് അതിന് A വേണം ഇതാണ് അടിസ്ഥാനപരമായ 2 ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ ഇത് ഈ ഡെഡ് ലോക്ക് എന്ന പ്രശ്നം നേരിടുന്നുണ്ട് ഈ ഒരു ഉദാഹരണം ഡെഡ് ലോക്ക് എന്നതിനെ പ്രതിപാദിക്കുന്നു ഷെഡ്യൂളുകളിൽ ഡെഡ് ലോക്ക് ഉണ്ടാകുന്നു എന്ന് കാണിക്കുന്നു ഈ ഒരു അവസ്ഥയിൽ ഈ സിസ്റ്റം ഡെഡ് ലോക്കിലാണ് 2 ഫേസ് ലോക്കിങ് പ്രോട്ടോകോളിൽ കാസ്കേഡിങ് റോൾ ബാക്ക് എന്ന പ്രശ്നവും ഉണ്ടാകാം നിങ്ങൾക്ക് കാസ്കേഡിങ് റോൾ ബാക്ക് എന്താണെന്ന് ഓർമ്മയുണ്ടാവും ഒരു ട്രാൻസാക്ഷൻ അബോർട്ട് ആകുമ്പോൾ അതുകാരണം മറ്റൊരു ട്രാൻസാക്ഷനും അബോർട്ട് ആകുന്നു അങ്ങനെ പോകുന്നു ഈ ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാകാം ഇതാണ് അതിനുള്ള ഉദാഹരണം നമുക്ക് ഈ ഒരു ഉദാഹരണം ഇവിടെ നോക്കാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ എല്ലാം ശരിയായിട്ട് തന്നെയാണ് പോകുന്നത് ഇനി ട്രാൻസാക്ഷൻ 1 അബോർട്ട് ആകുന്നു അതിൻറെ അർത്ഥം ഈ റൈറ്റ് ഓപ്പറേഷൻ അസാധു ആവുന്നു അപ്പോൾ ഇതിലൂടെ പോകാൻ പറ്റില്ല അതിൻറെ അർത്ഥം ഈ റീഡും അസാധു ആകുകയാണ് അതിൻറെ അർത്ഥം ഈ റൈറ്റും അസാധുവായി അങ്ങനെ വരുമ്പോൾ ഈ റീഡും അസാധു ആകുന്നു അങ്ങനെ ഈ A1 വന്നാൽ ട്രാൻസാക്ഷൻ 2 അബോർട്ട് ആകും പിന്നെ 3 ഉം അബോർട്ട് ആകും അപ്പോൾ ഇതാണ് കാസ്കേഡിങ് റോൾ ബാക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് 2 ഫെയിസ് പ്രോട്ടോകോളിലാണ് വരുന്നത് കാരണം ഓരോ ട്രാൻസാക്ഷനുകളിലും ഇതിന് ലോക്ക് കിട്ടുന്നു പിന്നീട് അതിനെ റിലീസ് ചെയ്യുന്നു ലോക് കിട്ടുന്നു റിലീസ് ചെയ്യുന്നു ലോക്ക് കിട്ടുന്നു റിലീസ് ചെയ്യുന്നു അതിന് ആവശ്യമുള്ള എല്ലാ ലോക്കുകളും അത് കൈവശപ്പെടുത്തുകയാണ് ഇത് 2 ഫെയിസ് ലോക്കിങ്ങ് പ്രോട്ടോകോൾ തന്നെയാണ് എന്ന മനസ്സിലാക്കാൻ ഒരു എളുപ്പ വഴിയാണ് ഇത് പക്ഷേ അതിന് കാസ്കേഡിങ് റോൾ ബാക്ക് പ്രശ്നങ്ങളും സഹിക്കേണ്ടിവരും അപ്പോൾ അടിസ്ഥാനപരമായി ഇതാണ് 2 ഫെയിസ് പ്രോട്ടോകോൾ ഇതിനെ കുറിച്ച് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇതിന് ഡെഡ് ലോക്കും കാസ്കേടിങ്ങ് റോൾ ബാക്കും കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ 2 ഫേസ് ലോക്കിങ് പ്രോട്ടോക്കോളിൽ ചില വേരിയന്റ്സ് വരുന്നുണ്ട് നമ്മൾ ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ് പഠിച്ചത് അപ്പോൾ ഇത് ബേസിക് 2 ഫേസ് ലോക്കിങ് പ്രോട്ടോകോൾ ആണ് മറ്റോരെണ്ണം ഉള്ളത് സ്ട്രിക്റ്റ് 2 ഫേസ് ലോക്കിങ് പ്രോട്ടോകോൾ അതിൻറെ കൂടെ ട്രാന്സാക്ഷന് എല്ലാ എക്സ്ക്ലൂസീവ് ലോക്കുകളെയും അവ കമ്മിറ്റ് ആകുന്നത് വരെ കൈവശപ്പെടുത്തി വെക്കേണ്ടി വരും അപ്പോൾ ഇത് X ലോക്കിനെ കമ്മിറ്റ് ചെയ്യുന്നതുവരെ കൈവശപ്പെടുത്തി വെക്കേണ്ടിവരും അല്ലെങ്കിൽ ട്രാന്സാക്ഷന് X ലോക്കിനെ കൈവശപ്പെടുത്തണം അത് കമ്മിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അബോർട്ട് ചെയ്യുന്നതോ വരെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് എഴുതാൻ വേണ്ടിയുള്ള എക്സ്ക്ലൂസിവ് ലോക്ക് കിട്ടിയാൽ അതിനെ എഴുതാൻ ഉപയോഗിക്കുന്നു അത് കമ്മിറ്റ് ചെയ്യുകയോ അബോട്ട് ആകുന്നതോ വരെ ഇതിനെ കൈവശപ്പെടുത്തുന്നു അതുകാരണം ഉള്ള ഉപയോഗം എന്താണ് ഉദാഹരണത്തിന് ഈ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്യുന്നു അതിനുശേഷം ഈ ലോക്കിനെ റിലീസ് ചെയ്യുന്നു അതിൻറെ അർത്ഥം ഇതിന് കിട്ടിയ ലോക്ക് അതിൻറെ ജോലി ശരിയായി ചെയ്തുകഴിഞ്ഞു റൈറ്റ് ഓപ്പറേഷനും വിജയകരമായി പൂർത്തിയായി എന്നാണ് അപ്പോൾ ഇതിനു ശേഷം വായിക്കുന്നത് എല്ലാം ശരിയായിരിക്കും ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ ഈ ട്രാൻസാക്ഷൻ ഈ ലോക്കിനെ കൈവശപ്പെടുത്തിയിരിക്കുന്ന അത്രയും നേരവും മറ്റൊരു ട്രാൻസാക്ഷനിലും ഈ പ്രത്യേക ഡേറ്റ ഐറ്റത്തെ വായിക്കുവാൻ സാധിക്കുകയില്ല അതിനെ റിലീസ് ചെയ്യുന്നതു വരെ ഈ ലോക്കിനെ റിലീസ് ചെയ്യുന്നത് കമ്മിറ്റ് ചെയ്തതിനു ശേഷം മാത്രം ആയിരിക്കും അതായത് എഴുതിയത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം അല്ലെങ്കിൽ അതിനെ അബോർട്ട് ചെയ്യും എന്നിട്ട് റിലീസ് ചെയ്യും പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റൊരു ട്രാൻസാക്ഷനിലും അതിന് പ്രഭാവം ഉണ്ടാകത്തില്ല കാരണം അതിന് വായിക്കുവാൻ സാധിക്കുകയില്ല മറ്റൊരു ട്രാൻസാക്ഷനും ഒരു പ്രത്യേക ഡേറ്റ ഐറ്റത്തെ അത് കമ്മിറ്റ് ആകുന്നതിനു മുന്നെ വായിക്കാൻ സാധിക്കില്ല അത് അതിൻറെ ലോക്കിനെ റിലീസ് ചെയ്യണം ഈ ഒരു സമയത്തിനുള്ളിൽ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ആവുകയോ അബോർട്ട് ആവുകയോ ചെയ്യുന്നു അവിടെ ഒരു തീരുമാനം എടുക്കപ്പെടുന്നു അതിൻറെ അർത്ഥം സ്ട്രിക്റ്റ് 2 ഫെയ്സ് ലോക്കിങ് പ്രോട്ടോക്കോളിൽ കാസ്കേഡിങ് റോൾ ബാക്ക് ഉണ്ടാകുന്നില്ല എന്നാണ് കാസ്കേഡിങ് റോൾ ബാക്ക് ഉണ്ടാകുന്നത് മറ്റൊരു ട്രാൻസാക്ഷൻ നേരത്തെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക ഡേറ്റ ഐറ്റത്തെ വായിക്കുമ്പോഴാണ് പക്ഷേ കമ്മിറ്റും അബോർട്ടും ആകുന്നില്ല അത് ഇവിടെ നടക്കില്ല കാരണം ഇത് എല്ലാ എക്സ്ക്ലൂസീവ് ലോക്കുകളെയും കൈവശപ്പെടുത്തിയിരുന്നു അതുപോലെ ഇത് സ്ട്രീക്ട് ഷെഡ്യൂളിനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം മറ്റൊന്നിനും ഈ ഒരു ഡേറ്റാ ഐറ്റത്തെ എഴുതുവാൻ സാധിക്കുകയില്ല ഇത് കമ്മിറ്റ് ചെയ്യുകയോ അബോർട്ട് ചെയ്യുകയോ ചെയ്യുന്നതിനു മുന്നേ തന്നെ X ലോക്കിനെയാണ് കൈവശപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കേസിനെ നമുക്ക് സ്ട്രീക്ട് ഷെഡ്യൂൾ എന്നു പറയാം അപ്പോൾ ഇത് സ്ട്രക്ട് 2 ഫെയിസ് ലോക്കിങ്ങ് പ്രോട്ടോകോൾ പക്ഷേ ഇതിൽ അപ്പോഴും ലോക്ക് ഉണ്ടാകാം അതിന്റെ പ്രശ്നം ഇപ്പോഴും ഉണ്ട് അത് ഉണ്ട് എന്ന് തെളിയിക്കുവാൻ എളുപ്പമാണ് ഞാൻ നിങ്ങളെ ഇതിന് സ്ട്രിക്ട് ടു ഫെയിസ് ലോക്കിങ്ങ് പ്രോട്ടോകോളിൽ ഡെഡ് ലോക്ക് ഉണ്ടാവാം എന്ന് കാണിക്കുന്ന ഒരു ഉദാഹരണം മുന്നോട്ട് വയ്ക്കാൻ ക്ഷണിക്കുന്നു അപ്പോൾ ഇതാണ് സ്ട്രിക്ട് ടു ഫെയിസ് ലോക്കിങ്ങ് പ്രോട്ടോകോൾ ഇനി മറ്റൊരെണ്ണം റിഗറസ് ടു ഫെയിസ് ലോക്കിങ്ങ് പ്രോട്ടോകോൾ rigorous two phase locking protocol ഇവിടെ ട്രാൻസാക്ഷൻ എല്ലാ ലോക്കുകളെയും കൈവശപ്പെടുത്തുന്നു അവ കമ്മിറ്റ് ആകുന്നതുവരെ അത് എസ് ലോക്കിനേയും എക്സ് ലോക്കിനേയും കമ്മിറ്റ് അല്ലെങ്കിൽ അബോർട്ട് ആകുന്നതു വരെയും കൈവശപ്പെടുത്തുന്നു അപ്പോൾ റിഗറസ് ടു ഫെയിസ് ലോക്കിങ്ങ് പ്രോട്ടോകോൾ സ്ട്രിക്ട് ആണ് കാരണം അത് എക്സ് ലോക്കിനെ കൈവശപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ തന്നെ അത് ഷെയേട് ലോക്കിനേയും കൈവശപ്പെടുത്തിയിരിക്കുന്നു അത് അബോർട്ട് ചെയ്യുകയോ കമ്മിറ്റ് ചെയ്യുകയോ ചെയ്യുന്നതു വരെ ഷെയേട് ലോക്കിനെ റിലീസ് ചെയ്യുന്നില്ല ഇതിനെ നമുക്ക് സീരിലയിസ് ചെയ്യുവാനും സാധിക്കും കമ്മിറ്റിന്റെ ഓർഡറിൽ നമുക്ക് സീരിയലയിസ് ചെയ്യാം കാസ്കേഡിങ് റോൾ ബാക്ക് ഇല്ലാത്ത അതേ പ്രോപ്പർട്ടിയാണ് ഇതും എടുത്തിരിക്കുന്നത് അപ്പോൾ കാസ്കേഡിങ് റോൾ ബാക്ക് ഉണ്ടാകുന്നില്ല സ്ടിക്ട് ഷെഡ്യൂൾ വരുന്നു ഡെഡ് ലോക്കുകളും ഉണ്ടാകുന്നു ഇനി അടുത്തത് 4 മത്തെത് കൺസർവേറ്റിവ് അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റാറ്റിക് ടു ഫെയിസ് ലോക്കിങ്ങ് പ്രോട്ടോകോൾ എന്നും പറയുന്നു ഇത് ഒരു പ്രധാനപ്പെട്ടതാണ് അതുപോലെ റിഗറസ് ടു ഫെയിസ് ലോക്കിങ്ങ് പ്രോട്ടോകോളിലും ഡെഡ് ലോക്ക് ഉണ്ടാകാം കാരണം ഒരു ട്രാൻസാക്ഷന് മറ്റൊരു ലോക്ക് വേണം അതായത് ട്രാൻസാക്ഷൻ 1 ന് B യിലെ ലോക്ക് വേണം അതേ സമയം ട്രാൻസാക്ഷൻ ടുവിൽ A യുടെ ലോക്ക് വേണം ട്രാൻസാക്ഷൻ 1 A യുടെ ലോക്കാണ് കൈവശപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ ട്രാൻസാക്ഷൻ 2 B യുടെ ലോക്കാണ് കൈവശപ്പെടുത്തിയിരിക്കുന്നത് ഇത് റിലീസ് ചെയ്യുന്നില്ല കമ്മിറ്റോ അബോർട്ടോ ആക്കുന്നതുവരെ പക്ഷേ എങ്ങനെ കിട്ടും എന്നുള്ളതിനെ കുറിച്ച് പറയുന്നില്ല അതുകാരണം ഡെഡ് ലോക്ക് ഉണ്ടാകാം ഇനി ഒരു കൺസർവേറ്റിവ് ടു ഫെയിസ് പ്രോട്ടോകോൾ ട്രാൻസാക്ഷനിൽ എല്ലാ ലോക്കുകളും അറ്റോമിക് രീതിയിൽ ആണ് കിട്ടുന്നത് ഇതിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് എന്താണ് അറ്റോമിക്ക് മാനർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ട്രാൻസാക്ഷൻ തുടക്കത്തിൽ എല്ലാ ലോക്കുകളും കിട്ടണം എന്നുള്ളത് കാണിക്കുന്നു അത് എനിക്ക് ഒരു എക്സ്ക്ലൂസിവ് ലോക്ക് A യിൽ ഉള്ളത് വേണം പിന്നെ B യിലുള്ള ഷെയേഡ് ലോക്ക് വേണം പിന്നെ C യിലുള്ള എക്സ്ക്ളൂസിവ് ലോക്ക് വേണം അങ്ങനെ അങ്ങനെ പറയും എന്നിട്ട് അത് എല്ലാ ലോക്കുകൾക്കും വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കുന്നു ട്രാൻസാക്ഷൻ ഒന്നും ട്രാൻസാക്ഷൻ 2 ഉം ഇത് കൊടുക്കുന്നു കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോൾ മാനേജർ എല്ലാ ലോക്കുകൾക്കും ഉള്ള അപേക്ഷകൾ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യും ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ ട്രാൻസാക്ഷൻ ഒന്നിന് A യുടെയും B യുടെയും c യുടെയും ലോക്കുകൾ വേണം എന്നുണ്ടെങ്കിൽ അവക്ക് എല്ലാ ലോക്കുകളും കിട്ടുമായിരിക്കാം അല്ലെങ്കിൽ ഒന്നും കിട്ടില്ലായിരിക്കും ഇതാണ് അറ്റോമിക് മാനർ അതിന് A യുടെ ലോക്ക് കിട്ടുകയും B യുടെയും C യുടെയും ലോക്കുകൾ കിട്ടാതിരിക്കുകയും ചെയ്യണമെന്നില്ല അതുപോലെ A യുടെയും B യുടെയും ലോക്ക് കിട്ടി സി യുടെ ലോക്ക് കിട്ടാതിരിക്കാം എന്നുമില്ല അങ്ങനെ അങ്ങനെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണുവാൻ സാധിക്കും ഡെഡ് ലോക്ക് ഇവിടെ ഉണ്ടാകുന്നില്ല ഡെഡ് ലോക്ക് എന്ന അവസ്ഥ എപ്പോഴാണ് ഉണ്ടാകുന്നത് രണ്ട് ട്രാൻസാക്ഷനുകൾക്ക് അന്യോന്യം വേണ്ട ലോക്കുകളെ അവർ കൈവശപ്പെടുത്തിയിരിക്കുമ്പോൾ ആണ് ഇവിടെ അങ്ങനെ ഉണ്ടാകുന്നില്ല കാരണം ട്രാൻസാക്ഷൻ ഒന്നിന് B യുടെ ലോക്ക് വേണം അതിന്റെ കൂടെ അത് A കൈവശപ്പെടുത്തിയിരിക്കുകയാണ് അവിടെ B യുടെ ലോക്കിനെ A കൈവശപ്പെടുത്തിയിരിക്കുമ്പോൾ അതിന് B യുടെ ലോക്ക് വേണ്ട എന്ന് വരുന്നില്ല കാരണം അതിന് ഒന്നുകിൽ A യുടെയും B യുടെയും ലോക്ക് കിട്ടും അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല ഇതേ കാര്യം തന്നെയാണ് ട്രാൻസാക്ഷൻ 2 നും സംഭവിക്കുക അതു കാരണം ഇവിടെ ഡെഡ് ലോക്ക് ഉണ്ടാകുന്നില്ല അപ്പോൾ ഇത് ഡെഡ് ലോക്ക് ഫ്രി ആണ് ഇതേ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് ഓരോ ട്രാൻസാക്ഷനും വിശദീകരിക്കും റീഡ് സെറ്റും റൈറ്റ് സെറ്റും ഉണ്ട് അതിന് ഷെയേഡ് ലോക്ക് ആവശ്യമുണ്ടെങ്കിൽ കിട്ടും എന്നിട്ട് അതിന്റെ കൂടെ റീഡ് സെറ്റ് വരും അത് പോലെ എക്സ്ക്ലൂസീവ് ലോക്ക് റൈറ്റ് സെറ്റിനു വരും ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇതിന് ഒന്നുകിൽ എല്ലാ ലോക്കുകളും കിട്ടും ഇല്ലെങ്കിൽ ഒന്നും കിട്ടുകയില്ല അതു കാരണമാണ് ഇവിടെ ഡെഡ് ലോക്ക് ഇല്ലാത്തത് അതാണ് ഈ കൺസർവേറ്റീവ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ടു ഫെയിസ് ലോക്കിങ്ങ് പ്രോട്ടോകോളിന്റെ മൊത്തത്തിൽ ഉള്ള ഉദ്ദേശം അപ്പോൾ ഇവയാണ് 2 ഫെയിസ് ലോക്കിങ്ങ് പ്രോട്ടോകോളിന്റെ 4 വേരിയൻറ്റ്സ് രത്നചുരുക്കത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കും എല്ലാ ട്രാൻസാക്ഷനും ആദ്യം ലോക്ക് കൈവശപ്പെടുത്തണം അതിനു ശേഷം മാത്രമേ അതിന് റിലീസ് ചെയ്യുവാൻ സാധിക്കൂ